ഇത് ഇലക്ട്രോമാഗ്നെറ്റിസത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഏതൊരു പഠനവും തുടങ്ങുന്നത് കൂളംബ് നിയമത്തിൽ നിന്നാണ് അപ്പോൾ ഈ പാഠത്തിൽ നാം രണ്ടു ചാർജുകളുടെ ഇടയ്ക്കുള്ള ഫോഴ്സുകളെപ്പറ്റിയുള്ള കൂളംബ് നിയമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിനു ശേഷം ഇത് പരീക്ഷണത്താൽ എങ്ങിനെയാണ് ശരിയെന്ന് തെളിയിക്കുന്നത് എന്ന് നോക്കാം മൂന്നാമതായി രണ്ടു ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സുകളെപ്പറ്റിയുള്ള ചില ഉദാഹരണങ്ങൾ ചെയ്യാം അവസാനമായി ഈ ലെക്ച്ചറിൽ നാം ഒരു പോയിന്റ് ചാർജ്ഉം ചാർജ്ജ് വിതരണവും തമ്മിലുള്ള ഫോഴ്സിനെ പ്പറ്റിയും പറയാം ഇതാണ് ഈ പാഠത്തിന്റെ ഘടന നാം എത്രത്തോളം പൂർത്തിയാക്കുന്നു എന്നതിനെ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് നൽകാം അതിൽ ഈ തത്വങ്ങളുപയോഗിച്ച് നിങ്ങൾക്ക് മൂന്നോ നാലോപ്രോബ്ലെംസ് പരിഹരിക്കാം അപ്പോൾ എന്താണ് കൂളംബ് നിയമം പറയുന്നത് രണ്ടു ബിന്ദു ചാർജ്ജുകളുണ്ടെങ്കിൽ തല്ക്കാലം അവ ബിന്ദുക്കളാണെന്ന് വയ്ക്കുക q1 എന്നും q2 എന്നും r അകലത്തിലുള്ള ഭാവിയിലേക്ക് ഒരു നൊട്ടേഷൻ നിർമ്മിക്കേണ്ടതുള്ളതു കൊണ്ട് ഇതിനെ r12 എന്ന് എഴുതാം അതായത് ചാർജ് 1 ഉം ചാർജ് 2 ഉം തമ്മിലുള്ള അകലം അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സിന്റെ അളവ് ഒരു പക്ഷെ മെക്കാനിക്സ് കോഴ്സിൽനിന്നും നിങ്ങൾക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ അളവ് ആണെന്ന് ഇവയ്ക്കിടയിലുള്ള ഫോഴ്സിന്റെ അളവ് നാം q1 നും q2 വിനും ഏത് യൂണിറ്റാണ് ഉപയോഗിയ്ക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നാം SI യൂണിറ്റുകൾ ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ SI യൂണിറ്റിൽ ഇത് എഴുതുമ്പോൾ ഇത് 4പൈ എപ്സിലോൺ 0 എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി വാക്വം എന്നറിയപ്പെടുന്നു അതായത് q1q2 വിനെ r12 വിന്റെ വർഗ്ഗത്താൽ ഭാഗിയ്ക്കുക ഇതിനർത്ഥം രണ്ടിന്റെയും ഇടയ്ക്കുള്ള അകലം ഇരട്ടിച്ചാൽ r12 വിന്റെ സ്ക്വയർ കാരണം സ്ക്വയർ അവിടെയുണ്ടെങ്കിൽ ഫോഴ്സ് നാലിലൊന്നായി കുറയും പക്ഷെ ഞാൻ പറഞ്ഞത് മാതിരി ഫോഴ്സ്ന് അളവ് മാത്രമല്ല ദിശയും കൂടിയുണ്ട് എന്താണ് ഫോഴ്സ്ന്റെ ദിശ q1 ഉം q2 വും ഒരേ അടയാളമാണെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ് വികർഷണമായിരിക്കും മറിച് വ്യത്യസ്ത അടയാളങ്ങളാണെങ്കിൽ ആകർഷണമായിരിക്കും അത് അര്ഥമാക്കുന്നതെന്തെന്നാൽ ഫോഴ്സ് ഓരോന്നിലേക്കുമായിരിക്കും ഈ കാര്യം വ്യക്തമായെന്ന് ഞാൻ കരുതുന്നു പക്ഷെ ഞാൻ ഈ ചിത്രത്തിന്റെ സഹായത്താൽ ഇത് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ രണ്ടു ചാർജുകൾ q1q2 r12 അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ചാർജുകൾ തുല്യമാണെങ്കിൽ ഞാൻ ഇതിനായി ഓറഞ്ച് നിറം ഉപയോഗിക്കുന്നു ഇവിടെ ഫോഴ്സ് വികര്ഷണമാണ് അതെ സമയം ചാർജുകൾ എതിർ അടയാളമാണെങ്കിൽ ഫോഴ്സ് ആകർഷണമായിരിക്കും ഇതെല്ലാം നമുക്ക് വെക്ടർ നോട്ടെഷനിൽ എങ്ങിനെ എഴുതാം ഇത് വളരെ ലളിതമായി ഞാൻ ഫോഴ്സ് എഴുതാൻ പോകുകയാണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം എഴുതുകയാണ് ഫോഴ്സ് 14പൈ എപ്സിലോൺ 0 q1q2 r122 ഞാൻ ഇപ്പോൾ ഇവ വെക്ടർ നോട്ടെഷനിൽ എഴുതുകയാണെങ്കിൽ ഒന്നിലെ ബലമോ രണ്ടിലെ ബലമോ ഒന്നിലെ ഫോഴ്സ് സബ്സ്ക്രിപ്ട് ഒന്ന് കൊണ്ട് കാണിക്കുന്നു ഇത് r12 ദിശയിലെ ഒരു യൂണിറ്റ് വെക്ടർ ആണ് ഈ തലപ്പാവ് യൂണിറ്റ് വെക്ടറിന്റെ സൂചനയാണ് r12 വെക്ടർ 1 ൽ നിന്നും 2 ലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് r 1 ൽ നിന്നും 2 ലേക്ക് യൂണിറ്റ് വെക്ടർ r12 ദിശയിലാണ് ഇതിന്റെ അളവ് ഒന്നാണ് ഞാൻ ഇത് പോലെ എഴുതുകയാണെങ്കിൽ ഒന്നിലെ ഫോഴ്സ് r12വിന് എതിർ ദിശയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എനിക്ക് ഇവിടെ ന്യൂന അടയാളം ഇടേണ്ടതായി വരും ഇത് എനിക്ക് ഇങ്ങിനെയും എഴുതാൻ കഴിയും 14 പൈ എപ്സിലോൺ 0 q1q2 r122 r21 r21 എന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കണം ഇത് എല്ലാത്തിനെയും അടയാളങ്ങൾ ദിശകൾ എന്നിവയെയെല്ലാം ഒറ്റയടിക്ക് സൂചിപ്പിക്കുന്നു ഫോഴ്സ് കളും ചാർജുകളും തുല്യമാണെങ്കിൽ ഇവിടെയുള്ള q1 ഉം q2 വും പോസിറ്റീവ് ആയിരിക്കും അതിനാൽ അടയാളം ശരിയായ ദിശയെ സൂചിപ്പിക്കുന്നു മറിച്ച് q1 ഉം q2 വും എതിരാണെങ്കിൽ അടയാളം മാറുന്നു അപ്പോൾ നമുക്കിത് ആവർത്തിക്കാം ഞാൻ q1 q2 എന്നീ രണ്ടു ചാജുകൾ എടുത്ത് എല്ലാo വെക്ടർ നൊട്ടേഷനിൽ എഴുതാം അപ്പോൾ ഞാൻ 1 ൽ നിന്ന് 2 ലേക്കുള്ളത് വെക്ടർ r12 എന്നും വെക്ടർ 2 ൽ നിന്ന് 1 ലേക്കുള്ളത് r21 എന്നും എഴുതുന്നു ഞാൻ ഈ കൺവെൻഷൻ ഒട്ടാകെ അവലംബിക്കുന്നു അപ്പോൾ 1ലെ ഫോഴ്സ് ശരിയായ ദിശയിൽ ¼ പൈ എപ്സിലോൺ 0 q1q2 r122 എന്നെഴുതാം r12 വർഗ്ഗം എന്നത് r21 വർഗ്ഗം x r12 യൂണിറ്റ് വെക്ടറിന് തുല്യമാണ് ഇത് പോലെ 2 ലെ ഫോഴ്സ് 14പൈ എപ്സിലോൺ൦ q1q2 r122 എന്നെഴുതാം ഇത് r21 വർഗ്ഗം എന്നത് r21 വർഗ്ഗം x r12 യൂണിറ്റ് വെക്ടറിന് തുല്യമാണ് ഇപ്പോൾ നാം ദിശയെക്കൂടി കണക്കിലെടുക്കുന്നതിനാൽ ഇത് ആകർഷണം വികർഷണം എന്നിവയെല്ലാം നൽകുന്നു അപ്പോൾ ഇതാണ് കൂളംബ് നിയമം ഇത് ബലത്തിന്റെ അളവും ദിശയും നൽകുന്നു ഇത് നാം പരീക്ഷണം മുഖേന എങ്ങിനെയാണ് പരിശോധിക്കുന്നത് കൂളംബ് പോയിന്റ് ചാർജ്ജുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയോ പരീക്ഷണം നടത്താൻ പോയിന്റ് ചാജ്ജുകൾ ലഭ്യമായിരുന്നോ ഇല്ല എന്നാണുത്തരം സമാനമായ മറ്റൊരു നിയമം ഉണ്ടെന്നു നിങ്ങൾക്കറിയാം അത് ഗുരുത്വകർഷണനിയമമാണ് ഇത് എന്താണ് പറയുന്നത് രണ്ടു പിണ്ഡങ്ങൾക്കിടയിലുള്ള ഫോഴ്സ് F m1m2 എന്നീ പിണ്ഡങ്ങൾ തമ്മിൽ ഇത് r12 വെക്ടർ ആണ് അപ്പോൾ 1 ലെ F എന്നത് Gm1m2 r122 2 ൽ നിന്നും 1 ലേക്കുള്ള യൂണിറ്റ് വെക്ടർ ഇത് എപ്പോഴും വികർഷണമാണ് ഗുരുത്വകർഷണത്തിൽ പിണ്ഡത്തിന് സൈൻ ഇല്ല എന്നിരുന്നാലും നിയമങ്ങളുടെ ഘടന ഒരുപോലെയാണ് നാം രണ്ടു വലിയ പിണ്ഡങ്ങൾ എടുത്ത് അവ തമ്മിലുള്ള ആകർഷണഫോഴ്സ് കണ്ടു പിടിക്കുമ്പോൾ ഈ ദിശയിലുള്ള ഫോഴ്സ് എപ്പോഴും ആകർഷണമാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരാൾക്ക് ഈ മാസ്സുകൾ ഖര മാസ്സുകൾ എടുത്ത് അവയ്ക്കിടയിലുള്ള ഫോഴ്സ് അളക്കാൻ സാധിക്കും ഈ ഫോഴ്സ് പിണ്ഡങ്ങളുടെ മധ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിധത്തിൽ എഴുതാം എന്ന് നമുക്ക് പിന്നീട് കാണാൻ കഴിയും രണ്ടു വ്യക്തമായ ഗോളാകൃതിയിലുള്ള പിണ്ഡങ്ങളുടെ ഇടയിലെ ബലത്തിന്റെ അളവ് r12 അവയുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമാണെങ്കിൽ Gm1m2r122 ആണ് ദിശകൾ ആകർഷണമാണ് നമുക്ക് സമാനമായ ഒരു പരിശോധന കൂളംബ് നിയമത്തിൽ ചെയ്യാൻ കഴിയുമോ നമുക്ക് നോക്കാം ഇപ്പോൾ കൂളംബ് നിയമത്തെക്കുറിച്ച നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ടു വലിയ പിണ്ഡങ്ങൾ എടുത്ത് അവയെ ചാർജ് ചെയ്യുന്നു ചാർജ് ചെയ്യാൻ എളുപ്പം ഗോളങ്ങളാണ് അവ ഒറ്റപ്പെട്ടവയാകയാൽ ചാർജ് ഉപരിതലത്തിൽ സമമായി വിന്യസിക്കപ്പെടുന്നു ഈ രണ്ടു ഗോളങ്ങളും അകലെയാണെങ്കിൽ അവയിലെ ചാർജ് നീങ്ങുന്നതാണ് എന്തെന്നാൽ അങ്ങനെയാണ് നാം അവയെ ചാർജ് ചെയ്യുന്നത് നാം അവയെ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് അവയിലേക്ക് നീക്കപ്പെടുന്നു എന്നിരുന്നാലും ഈ ചാർജുകൾ ചലിക്കുന്നവയാകയാൽ അവ അടുപ്പിക്കുമ്പോൾ സാഹചര്യം ഇതല്ല ഈ ചാർജുകൾ നീങ്ങാൻ തുടങ്ങുന്നു അവക്ക് കൂടുതൽ കൂടുതൽ ചാർജുകൾ ഉണ്ടായിത്തുടങ്ങുന്നു ഗോളങ്ങൾ അടുക്കും തോറും ചാർജുകൾ വികര്ഷിക്കപ്പെടുന്നു അപ്പോൾ കൂടുതൽ ചാർജുകൾ ഗോളങ്ങളുടെ പിറകു വശത്തേക്ക് കേന്ദ്രീകരിക്കുന്നു മുൻപിൽ കുറച്ച് ചാർജുകൾ മാത്രം അവസാന ചിത്രം എന്തെന്നാൽ ഈ ചാർജ് ഗോളങ്ങളിൽ ചാർജുകൾ കൂടുതലും പിറകുവശത്തും മുന്നിൽ കുറച്ചുമായി വിന്യസിക്കപ്പെടുന്നു അക്കാരണത്താൽ യഥാർത്ഥത്തിൽ എനിക്ക് അവ സ്വകേന്ദ്രങ്ങൾ തമ്മിൽ അകലത്തിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല കൂടാതെ ഈ ചാർജ് ഡിസ്ട്രിബ്യുഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല ചാർജുകൾ എന്തകലത്തിലാണെന്ന് എങ്ങിനെയാണ് അറിയുക അതിനാൽ കൂലംബ് നിയമം രണ്ടു ചാർജ് ചെയ്യപ്പെട്ട ഗോളങ്ങൾ അടുത്ത് കൊണ്ടുവരികയും അവയ്ക്കിടയിലുള്ള ഫോഴ്സ് അളക്കുകയും ചെയ്യുന്നത്കൊണ്ട് മാത്രം പരിശോധിക്കുവാൻ പറ്റുകയില്ല ഇതിനുള്ള പരിഹാരം വളരെ താല്പര്യമുളവാക്കുന്നതാണ് പരിഹാരം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഫോഴ്സ് 1r സ്ക്വയർ ആണെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി നാം കൂളംബ് നിയമം എടുക്കുമ്പോൾ ഒരു ഗോളം ഒരു ലോഹഗോളം എടുത്ത് അത് ചാർജ് ചെയ്യുമ്പോൾ എല്ലാ ചാർജ്ഉം ഉപരിതലത്തിൽ വിന്യസിക്കപ്പെടുന്നു അതിന്റെ ഉള്ളിൽ ചാർജ് കാണുകയില്ല അപ്പോൾ ഫോഴ്സ് 1r2 ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ 1r2 ഡിപെൻഡന്റ് ആണ് എന്ന് ഞാൻ പിന്നെയും പ്രസ്താവിക്കുന്നു നാം ലോഹഗോളത്തിൽ നിക്ഷേപിക്കുന്ന എല്ലാ ചാർജ്ഉം ഉപരിതലത്തിൽ വിന്യസിക്കപ്പെടുന്നു ഇത് പരിശോധിക്കാനായി നാം ചെയ്യുന്ന പരീക്ഷണം കൃത്യമായി ഒരു ഗോളം എടുക്കുക അതിനെ ചാർജ് ചെയ്യുക അതിനുശേഷം ഒരു ഗോളം പുറത്തെടുക്കുക അതിനെ ഒരു കമ്പിയിൽ ബന്ധിപ്പിക്കുക ഈ ഗോളത്തിലെ ചാർജ് 0 ആകുന്നെങ്കിൽ ഫോഴ്സ് ഫീൽഡ് 1r2 ആണെന്ന് അറിയാം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇത് കാവൻഡിഷ് പരീക്ഷണം എന്നറിയപ്പെടുന്നു 1r2 എന്നത് 1r2 10 17 ആണ് അപ്പോൾ നമുക്കറിയാം കൂളംബ് നിയമപ്രകാരം ഇത് 1 r2 ആണ് അപ്പോൾ നാം എന്താണ് സ്ഥാപിച്ചത് എന്ന് നോക്കാം ഒന്ന് രണ്ടു ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് 14പൈ എപ്സിലോൺ 0 q1q2r2 r എന്നത് അവയ്ക്കിടയിലെ അകലമാണ് രണ്ട് ഇത് പരീക്ഷണത്തിൽ തെളിയിച്ചു മൂന്ന് 1 r2 ബലത്തിന്റെ സ്വഭാവം കാരണം ഒരു ലോഹ ഗോളത്തിലെ ചാർജ് എല്ലാം അതിന്റെ ഉപരിതലത്തിൽ വരുന്നു